ഇവിടെ ഇപ്പോൾ നമുക്ക് അതിർത്തി വ്യവസ്ഥകളിലേക്ക് പോകാം വീണ്ടും ഇത് നിങ്ങളിൽ മിക്കവർക്കും ഒരു നവോന്മേഷമായിരിക്കണം അതിനാൽ ടാൻജെൻഷ്യൽ ബോർഡറി അവസ്ഥകൾ എന്ന് വിളിക്കപ്പെടുന്നവയിൽ നിന്ന് ഞങ്ങൾ ആരംഭിക്കും അതിനാൽ ടാൻജെൻഷ്യൽ ബൌണ്ടറി സാഹചര്യങ്ങളിൽ ടാൻജെൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡുകൾ അല്ലെങ്കിൽ ടാൻജൻഷ്യൽ കാന്തിക മണ്ഡലങ്ങൾtangential magnetic field തമ്മിലുള്ള ബന്ധം ശരിയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നമുക്ക് ഇവിടെ ഒരു മാധ്യമം എടുക്കാം നമുക്ക് ഇതിനെ മീഡിയം 1 എന്നും മീഡിയം 2 എന്നും ഞാൻ പറയുന്നതുപോലെ മീഡിയം 1 എന്നും മീഡിയം 2 എന്നും വിളിക്കാം ഇവിടെ എന്താണ് വ്യത്യാസം ഒരു മാധ്യമത്തെ മറ്റൊരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ് ഉം ഉം ശരിയാണ് അതുപോലെ തന്നെ ഉം മീഡിയം 2 ന് നമുക്ക് പറയാം അതൊരു പ്രതലമാണ് അതിനാൽ ഉപരിതലം ഇവിടെ ചില സാധാരണ വെക്ടറുകളാൽ വിശേഷിപ്പിക്കപ്പെടും ഇത് ഇവിടെ തുടരുന്നുവെന്നും ടാൻജൻഷ്യൽ ഫീൽഡുകൾക്കിടയിൽ ഒരു ബന്ധം നേടണമെന്നും നമുക്ക് പറയാം അതിനാൽ നാമെല്ലാവരും ഇത് ബിരുദതലത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് നീ എന്ത് ചെയ്യുന്നു നിങ്ങൾ ഒരു ചെറിയ ചെറിയ വയർഫ്രെയിം എടുക്കുക അത് അതിർത്തിയിൽ കടന്നുപോകുന്നു അതിനാൽ ഇത് അതിർത്തിയുടെ പകുതിക്ക് മുകളിലാണ് അതിർത്തിക്ക് താഴെയുള്ള പകുതി ശരിയാണ് നമുക്ക് ഇതുപോലൊന്ന് എടുക്കാം നമുക്ക് ഇതിനെ വിളിക്കാം ഇതിനെ വിളിക്കാം അതിനാൽ മുകളിലും താഴെയുമുള്ള വൈദ്യുത മണ്ഡലങ്ങൾ തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ ലക്ഷ്യമായ അതിർത്തി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നിർദ്ദേശിക്കുന്നു അതിനാൽ എനിക്ക് ഈ വളവിലൂടെയുള്ള വൈദ്യുത മണ്ഡലം വേണം ഞാൻ ചെയ്യാൻ പോകുന്നത് 0 ലേക്ക് പ്രവണതയാക്കാൻ പോകുകയാണ് അതാണ് എനിക്ക് മുകളിലും തൊട്ടു താഴെയും ഉള്ള ബന്ധം നൽകുന്നത് അതിനാൽ എനിക്ക് അതിർത്തിയിലൂടെ പോകണം ഏത് സിദ്ധാന്തമാണ് വിദ്യാർത്ഥി സ്റ്റോക്സ് സിദ്ധാന്തം സ്റ്റോക്സ് സിദ്ധാന്തമാണ് നമ്മെ സഹായിക്കാൻ പോകുന്നത് സ്റ്റോക്സ് സിദ്ധാന്തത്തിന് ഒരു ചുരുൾ ആവശ്യമാണ് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ Maxwell's Equations എനിക്കായി റെഡിമെയ്ഡ് പോലെയുള്ള ഒരു ചുരുളുമായി ഇരിക്കുന്നത് ഞാൻ കാണുന്നു അതിനാൽ ഈ സമവാക്യം സ്റ്റോക്ക്സ് രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് സംയോജിപ്പിക്കേണ്ടതുണ്ട് അത് ശരിയാണ് എന്നാൽ ഏത് തരത്തിലുള്ള സംയോജനമാണ് വിദ്യാർത്ഥി ലൈൻ ഇന്റഗ്രൽ ലൈൻ ഇന്റഗ്രൽ പക്ഷേ എനിക്ക് ഒരു ലൈൻ ലഭിക്കാൻ പോകുകയാണെങ്കിൽ ഒരു ലൈൻ ഇന്റഗ്രൽ കാണുന്നില്ല ശരി ലൈൻ ഇന്റഗ്രൽ സ്റ്റോക്ക്സ് സമവാക്യത്തിന്റെ ഒരു വശത്ത് ഉണ്ടോ മറുവശം എന്താണ് വിദ്യാർത്ഥി ഉപരിതലം ഉപരിതല ഇന്റഗ്രൽ വലത് അതിനാൽ ഞാൻ ഈ ഉപരിതലം ഇവിടെ വലത്തേക്ക് എടുത്താൽ ഈ അതിർത്തി വലത്താൽ പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഒരു തുറന്ന പ്രതലമാണിത് അതിനാൽ എനിക്ക് പറയാൻ കഴിയും ഞാൻ ഉപരിതലത്തിന് മുകളിലൂടെ സംയോജിപ്പിക്കാൻ പോകുന്നു കൂടാതെ ഉപരിതല സാധാരണമായ ഉപരിതലത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഏത് രീതിയാണ് ബോർഡിൽ നിന്ന് ശരിയാകുന്നത് എനിക്ക് ഇത് ശരിയായി ചെയ്യാൻ കഴിയും ഇതാണ് എന്റെ സ്റ്റോക്സ് സിദ്ധാന്തം ഞങ്ങളെ സഹായിക്കുന്നു ഇതാണ് എനിക്ക് ശരിയാകുന്നത് ഇപ്പോൾ ഞാൻ വലതുവശത്തേക്ക് നോക്കുമ്പോൾ ഈ സമവാക്യത്തിൽ നിന്ന് എനിക്ക് ഇവിടെത്തന്നെ പകരം വയ്ക്കാം അതിനാൽ ഇത് ചെയ്യും ലളിതമാക്കാൻ പ്രത്യേക മാർഗമൊന്നുമില്ല അത് ശരിയാണെങ്കിൽ അത് നിലനിൽക്കും അതിനാൽ ഇത് ശരിയാകും ഇതുവരെ ഞാൻ ചെയ്തത് എന്റെ മാക്സ്വെല്ലിന്റെ സമവാക്യംMaxwell's Equation ഇവിടെ എടുത്ത് ഈ ഷേഡുള്ള പ്രതലത്തിൽ സംയോജിപ്പിക്കുക എന്നതാണ് സ്റ്റോക്സ് സിദ്ധാന്തം ഇത് കോണ്ടൂർ എന്ന നിലയിൽ ലളിതമാക്കുന്നു അതിനാൽ ഞാൻ ഇവിടെ നിന്ന് ആരംഭിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ആരംഭിച്ച് ഇവിടെ നിന്ന് തിരികെ പോകട്ടെ എന്ന് നമുക്ക് പറയാം അതിനാൽ ഇവയും അളവുകളും ചെറുതാണെന്നും ഈ അരികുകളിൽ വൈദ്യുത മണ്ഡലം സ്ഥിരമായിരിക്കുമെന്നും ഞങ്ങൾ അനുമാനിക്കും അതിനാൽ ഇവിടെയുണ്ട് ഇപ്പുറത്തുണ്ട് അതിർത്തി നിർവചിക്കുന്ന ഈ ഉപരിതലത്തിന്റെ സാധാരണ വെക്റ്റർ ശരിയാണോ കാരണം ഞാൻ ഒരു ഇന്റർഫേസ് നിർവചിക്കുമ്പോഴെല്ലാം ഞാൻ എങ്ങനെ ഇന്റർഫേസ് നിർവചിക്കും ഇന്റർഫേസുകൾ ശരിയായി നിർവചിക്കുന്ന ഉപരിതലത്തിന് ഞാൻ സാധാരണ നൽകുന്നു അതിനാൽ ഞാൻ ഇവിടെ നിന്ന് ആരംഭിക്കുമ്പോൾ എനിക്ക് എന്താണ് നൽകാൻ പോകുന്നത് അതിനാൽ എനിക്ക് ലഭിക്കും പക്ഷേ മാത്രമല്ല ന്റെ സ്പർശിക്കുന്ന ഭാഗം എനിക്ക് ലഭിക്കുക അതിനാൽ ടാൻജൻഷ്യൽ ഗുണിച്ചാൽ ഞാൻ ഈ ഭാഗം പൂർത്തിയാക്കി തുടർന്ന് ഞാൻ അടുത്ത സെഗ്മെന്റിലേക്ക് നീങ്ങുന്നു എനിക്ക് എന്ത് ലഭിക്കും പ്ലസ് ടാൻജൻഷ്യൽ അതിനാൽ നമുക്ക് ഇതിനെ വിളിക്കുന്നതിന് പകരം x ദിശ വലത് എന്ന് വിളിക്കാം ഇത് y ദിശയിൽ ആയിരിക്കും പിന്നെ എത്ര നീളം അതുപോലെ ഞാൻ കൂടുതൽ മുന്നോട്ട് പോയാൽ എനിക്ക് അടുത്ത ടേം ലഭിക്കാൻ പോകുകയാണ് വിദ്യാർത്ഥി X ഡെൽറ്റ വിദ്യാർത്ഥി E 1 അപ്പോൾ ഞാൻ എന്താണ് ചെയ്തത് ഞാൻ ഈ ലൈൻ ഇന്റഗ്രൽ വ്യത്യസ്ത ഭാഗങ്ങൾ കണക്കാക്കി അതിനാൽ ഞാൻ പരിധി എടുക്കാൻ പോകുന്നു ഈ പരിധി 0 ആയി മാറുന്നു ഇവിടെ എല്ലാ നിബന്ധനകളും ആകാൻ പോകുന്നു അവർ 0 ശരിയാകാൻ പോകുന്നു ഞങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു അനുമാനം ഈ ഫീൽഡുകൾ ഭൌതിക അളവുകളാണ് അവ അനന്തതയിലേക്ക് പൊട്ടിത്തെറിക്കാൻ പോകുന്നില്ല എന്നതാണ് അതിനാൽ ഒരു പരിമിത പദത്തെ അപ്രത്യക്ഷമാകുന്ന ചെറിയ പദത്താൽ ഗുണിക്കുമ്പോൾ എനിക്ക് അതിൽ നിന്ന് മുക്തി നേടാനാകും അതിനാൽ എനിക്ക് അവശേഷിക്കുന്നത് വലതുവശത്തും വലതുവശത്ത് എനിക്ക് ഇപ്പോൾ എന്താണ് അവശേഷിക്കുന്നത് അതിനാൽ എനിക്ക് പറയാം ഉദാഹരണത്തിന് ഉപരിതലമാണെന്ന് എനിക്ക് എഴുതാം കൂടാതെ ഡിഎസ് വെക്റ്ററിനൊപ്പം ഉള്ള B M എന്നിവയുടെ ഘടകത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ ഈ വെക്ടറിനും ഈ വെക്ടറിനും ഇടയിലുള്ള ഡോട്ട് ഉൽപ്പന്നം എനിക്ക് ഇവിടെ എടുക്കേണ്ടതിനാൽ അത് ശരിയാണ് അതിനാൽ ഈ പേജിന്റെ തലത്തിൽ നിന്ന് പുറത്തുവരുന്ന ഇതോടൊപ്പം നിലനിൽക്കുന്നതെന്തും ഈ പദത്തിൽ അതിജീവിക്കുന്നു അത് നിലനിർത്തിയിരിക്കുന്ന ഒരേയൊരു പദമാണ് അതിനാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഹാറ്റ് ഇടാം ഈ പദങ്ങളെക്കുറിച്ച് എനിക്ക് എന്തുചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഈ നിബന്ധനകളെക്കുറിച്ച് എനിക്ക് എന്ത് പറയാൻ കഴിയും ഏത് നിബന്ധനകൾ നിലനിൽക്കും ഏത് നിബന്ധനകൾ നിലനിൽക്കില്ല ആദ്യ ടേമിനെക്കുറിച്ച് കാന്തികക്ഷേത്രം കൊണ്ട് ഗുണിച്ചാൽ അല്ലെങ്കിൽ ഞാൻ പരിധി 0 ആയി എടുക്കുമ്പോൾ അത് 0 അല്ലെങ്കിൽ പൂജ്യമല്ലാത്തതായിരിക്കുമോ ഇത് ഒരു കാന്തിക മണ്ഡലമാണ് ഇത് ഒരു ഭൌതിക അളവാണ് കൂടാതെ ഒരു ഭൌതിക അളവ് പൊട്ടിത്തെറിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അവിടെ ഇല്ല ഇതിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല ഇത് രണ്ട് ഇന്റർഫേസുകൾ തമ്മിലുള്ള ഒരു അതിർത്തി മാത്രമാണ് അതിനാൽ എനിക്ക് എന്ത് ന്യായമായ അനുമാനം ഉണ്ടാക്കാൻ കഴിയും ഞാൻ ഇത് 0 ആയി ചുരുക്കുമ്പോൾ എനിക്ക് ഒരു പരിമിതമായ അളവ് ഉണ്ടായിരിക്കും അത് അപ്രത്യക്ഷമാകുന്ന ചെറിയ അളവിലുള്ളത് കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ ഈ വ്യക്തി യഥാർത്ഥത്തിൽ 0 ലേക്ക് പോകും ഇവിടെ ഈ കറന്റിനെക്കുറിച്ച് ഇതൊരു കാന്തിക വൈദ്യുതധാരയാണ് അത് ഭൌതികമല്ല ഭൌതികമാണോ എന്ന കാര്യം ഒരു നിമിഷം മറക്കുക ഇഷ്ടം അത് പരിമിതമാകാം അല്ലെങ്കിൽ പരിമിതമാകാം അതിനാൽ അത് പരിമിതമാണെങ്കിൽ അതായത് ഈ സംഭാവനയാണ് നമ്മൾ 0 വലത്തേക്ക് പോകുന്നത് അതിനാൽ ഒരു കേസ് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് മറ്റൊന്ന് അത് അനന്തമാണെന്ന് സങ്കൽപ്പിച്ചാൽ അത് എങ്ങനെ അനന്തമാകും അതിനാൽ അനന്തമായ ചാലക മെറ്റീരിയൽ ശരി ഞങ്ങൾ ഒരു പെർഫെക്റ്റ് ഇലക്ട്രിക് കണ്ടക്ടർ എടുത്ത് കണ്ടക്ടറിൽ കറന്റ് എവിടെയാണ് അതിന്റെ കനം എത്രയാണ് നിങ്ങൾ എന്ത് പറയും അല്ല ഇത് ഒരു തികഞ്ഞ ചാലകമാണ് അനന്തമാണ് അപ്പോൾ നിങ്ങൾ എന്ത് പറയും എവിടെയാണ് കറന്റ് ഒഴുകുന്നത് Student It is not at the 0 ഏതാണ്ട് വലത് ഇത് ഒരു ശുദ്ധമായ ഉപരിതല വൈദ്യുതധാരയാണ് അതിനാൽ ഇത് ഒരു ശുദ്ധമായ ഉപരിതല വൈദ്യുതധാരയാണെങ്കിൽ ഇന്റർഫേസിൽ തന്നെ അതിന്റെ മൂല്യം അനന്തമാണ് എന്നാൽ ഈ M അതിലേക്ക് പരിമിതമായ അളവായിരിക്കും അതിനാൽ അതിനെയാണ് ശുദ്ധമായ ഉപരിതല കറന്റ് ശരി എന്ന് വിളിക്കുന്നത് അതിനാൽ ഞാൻ ഇത് ഇവിടെ സൂക്ഷിച്ചാൽ അതിജീവിക്കാൻ സാധ്യതയുള്ള ഒരേയൊരു പദമാണ് ഈ പദം ഞാൻ എന്ന് വിളിക്കും അതിനാൽ ഇത് വീണ്ടും അടുക്കാൻ ഇത് ഒരു ശുദ്ധമായ ഉപരിതല വൈദ്യുതധാരയാണെങ്കിൽ വളരെ വലുതായിരിക്കും എന്നാൽ ഈ വളരെ വലിയ അളവ് അപ്രത്യക്ഷമാകുന്ന ചെറിയ അളവ് കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് ഒരു പരിമിതമായ ഉപരിതല വൈദ്യുത പ്രവാഹം ലഭിക്കും അത്തരം ത്രെഡ്ബേർ മാർഗങ്ങളിലൂടെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഞങ്ങൾ ശീലിച്ചിട്ടില്ല എന്നാൽ അങ്ങനെയാണ് ഞങ്ങൾ ഈ സമവാക്യത്തിലെത്തിയത് അതിനാൽ ഞാൻ ഇടതുവശത്തും വലതുവശത്തും താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് എന്താണ് അതിനാൽ ഇതും ഞാൻ താരതമ്യം ചെയ്യാൻ പോകുന്നു അതിനാൽ ഇത് ഒന്നുമല്ല മീഡിയത്തിന് മുകളിലോ താഴെയോ ഉള്ള വൈദ്യുത മണ്ഡലത്തിന്റെ ടാൻജെൻഷ്യൽ ഭാഗവും മീഡിയത്തിന് മുകളിലുള്ള വൈദ്യുത മണ്ഡലത്തിന്റെ ടാൻജെൻഷ്യൽ ഭാഗവുമാണ് ഇവിടെയും ഇവിടെയും ഉണ്ട് ഇവ റദ്ദാക്കും അതിനാൽ ഈ രണ്ട് സമവാക്യങ്ങളും ഞാൻ സംയോജിപ്പിക്കുമ്പോൾ വെക്റ്ററുകൾ ശരിയായി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ അവയെ സംയോജിപ്പിക്കണം അതിനാൽ ഞാൻ ഈ രണ്ട് സമവാക്യങ്ങളും സംയോജിപ്പിക്കുമ്പോൾ എനിക്ക് ശരിയാകുന്ന സമവാക്യം ഇതാണ് എന്ന് നിങ്ങൾ കാണും നിങ്ങൾ ഇത് കാണുന്നു അതിനാലാണ് ഞാൻ ഇത് n ഇവിടെ നിർവചിച്ചത് അതിനാൽ നമുക്ക് ഇവിടെ ഒരു വൈദ്യുത മണ്ഡലം എടുക്കാം ഇതുപോലെ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണെന്ന് പറയാം അപ്പോൾ n വിമാനത്തിലാണെങ്കിൽ ചൂണ്ടുന്നത് എവിടെയാണ് വിമാനത്തിന് പുറത്ത് അത് അതിർത്തിയോട് ചേർന്നിരിക്കുമോ n ക്രോസ് ഏത് വെക്ടറും n ന് ലംബമായിരിക്കും n അതിർത്തിക്ക് ലംബമായിരിക്കും അതിനാൽ എല്ലായ്പ്പോഴും വലതുവശത്തെ അതിർത്തിയിലായിരിക്കും അതിനാൽ വെക്ടറുകൾ ഉപയോഗിച്ച് നമുക്ക് ടാൻജെൻഷ്യൽ ഫീൽഡ് ഉടനടി നൽകുന്നതിനുള്ള വളരെ സമർത്ഥമായ ഒരു മാർഗമാണിത് ഹൈസ്കൂൾ എഴുത്ത് രീതി ഇതുപോലെയാണ് അല്ലെങ്കിൽ ടാൻജെൻഷ്യൽ ആണ് അങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾ കാണുന്നത് പക്ഷേ വെക്റ്ററുകളുടെ ഭാഷ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഇത് കൂടുതൽ സങ്കീർണ്ണമായ രീതിയിൽ എഴുതാം അതിനാൽ സംഗ്രഹിക്കുന്നത് n ന് ലംബമായിരിക്കും ഇന്റർഫേസ് അതിനാൽ ഇത് ടാൻ ആണ് അതിനാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത് കൃത്യമായി ടാൻജെൻഷ്യൽ ഫീൽഡുകളാണ് വലതുവശത്ത് അവശേഷിക്കുന്നത് ഇതാണ് അതിനാൽ ഞാൻ ഇതിനെ ശുദ്ധമായ ഉപരിതല കറന്റ് എന്ന് വിളിക്കും അതിനാൽ രണ്ടാമത്തെ മാക്സ്വെല്ലിന്റെ സമവാക്യത്തിനായി Maxwel's equation എനിക്ക് അതേ വ്യായാമം ആവർത്തിക്കാം പിന്നെയും എനിക്കെന്തുണ്ട് അതിനാൽ അതിജീവിക്കുന്ന ഒരേയൊരു പ്രൂഫ് ലൈൻ ലൈനിൽ എനിക്ക് അനുകരിക്കാനാകും അതിനാൽ ഈ വ്യക്തി D എന്നത് ഒരു ഭൌതിക അളവ് അല്ലെങ്കിൽ സ്ഥാനചലന മണ്ഡലമാണ് ഞാൻ അതിനെ ഉപരിതല അവിഭാജ്യമായി ഒട്ടിക്കുമ്പോൾ സംഭാവന അപ്രത്യക്ഷമാകുമെന്ന് എനിക്ക് പറയാൻ കഴിയും എനിക്ക് ഒരു J മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇത്തവണ J ഇതിൽ ഒരു നല്ല അടയാളം വഹിക്കുന്നു ജെ എന്ന സമവാക്യം ക്ഷമിക്കണം എം നെഗറ്റീവ് ചിഹ്നം വഹിക്കുന്നു അതിനാൽ ടാൻജൻഷ്യൽ H ഫീൽഡുകൾക്കായി എനിക്ക് ലഭിക്കുന്നത് ഈ ബന്ധമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇത് ടാൻജെൻഷ്യൽ E ആണ് ഇത് ടാൻജൻഷ്യൽ H ഫീൽഡുകൾ ശരിയാണ് അതിനാൽ ഇവിടെ വീണ്ടും എന്താണ് പറയുന്നത് ഇതും ഒരു ശുദ്ധമായ ഉപരിതല വൈദ്യുതധാരയാണ് ശുദ്ധമായ ഉപരിതല പ്രവാഹങ്ങൾ അർത്ഥമാക്കുന്നത് അത് ഉപരിതലത്തിൽ അപ്രത്യക്ഷമാകുന്ന ചെറിയ കനത്തിൽ വസിക്കുന്നു അപ്പോൾ മാത്രമേ അതിന് സംഭാവന ചെയ്യാൻ കഴിയൂ അതിനാൽ ഞാൻ ഒരു നോൺ കണ്ടക്റ്റിംഗ് മീഡിയം എടുക്കുകയാണെങ്കിൽ ഗ്ലാസ് ഭിത്തിയുടെ തറ എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നില്ല അവ ഇല്ല അവ തികഞ്ഞ കണ്ടക്ടർമാരല്ല അങ്ങനെയെങ്കിൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും അതിർത്തി വ്യവസ്ഥ പ്രകടിപ്പിക്കുന്നതിനുള്ള ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന മാർഗം ഏതാണ് ടാൻജെൻഷ്യൽ ഫീൽഡുകൾ ഒരേ ശരിയാണ് കാരണം ഈ ആൺകുട്ടികൾ J ഉം M ഉം 0 ആണ് അതിനാൽ വെക്ടറുകളുടെ ഭാഷയിൽ നിങ്ങൾ ഈ ഡെറിവേറ്റേഷൻ വളരെ നല്ലതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾ എഴുതുന്നു അതിനാൽ ഇത് സ്പർശനപരമായ അതിർത്തി വ്യവസ്ഥകൾ മറ്റൊന്നിലേക്ക് പോകുന്നിടത്തോളം ആണ് അതിനാൽ ഞങ്ങൾ മാക്സ്വെല്ലിന്റെ ആദ്യ രണ്ട് സമവാക്യങ്ങൾ ശരിയായി ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു അതിനാൽ ബാക്കിയുള്ള 2 സമവാക്യങ്ങൾ ഞാൻ ശരിയായി ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ചോദിക്കാം അതിനാൽ അത് ഞങ്ങളെ സാധാരണ അതിർത്തി അവസ്ഥകളിലേക്ക് കൊണ്ടുപോകുന്നു ഞാൻ അത് ഉപയോഗിക്കും അതിനാൽ ഇവിടെ എനിക്ക് ഒരു തെറ്റ് സംഭവിച്ചുവെന്ന് ഞാൻ കരുതുന്നു ഇവിടെ ശരിയായ സാധാരണ അതിർത്തി സാഹചര്യങ്ങളായിരിക്കണം അതിനാൽ എനിക്ക് ഇവിടെ വീണ്ടും ഒരു ഇന്റർഫേസ് ഉണ്ട് ഇത് മീഡിയം 1 ഉം മീഡിയം 2 ഉം ആണ് ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അതിർത്തി അവസ്ഥ കണ്ടെത്തുന്നതിനുള്ള വഴി എന്താണ് വിദ്യാർത്ഥി സിലിണ്ടർ ഒരു സിലിണ്ടർ വലത്തേക്ക് എടുക്കുക അതിനാൽ ഞാൻ ഇതുപോലുള്ള ഒരു സിലിണ്ടർ ശരിയാണ് അതിനാൽ ഇതൊരു മീഡിയം 1 ഉം 2 ഉം ആണ് നിങ്ങൾ തുറന്ന പ്രതലമാണോ അടഞ്ഞ പ്രതലമാണോ എടുക്കുന്നത് എന്നതിനുള്ള സൂചന എങ്ങനെയാണ് ആ സൂചന ലഭിക്കുക നോക്കുമ്പോഴാണ് ആ സൂചന ലഭിക്കുന്നത് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളുടെ സംയോജിത രൂപം ശരിയാണ് ഇവിടെ ഈ സമവാക്യം അവിഭാജ്യ രൂപത്തിൽ ചെയ്തപ്പോൾ എനിക്ക് ചുരുൾ എടുക്കുകയാണെന്ന് മനസ്സിലായി വിദ്യാർത്ഥി ചുരുൾ സ്റ്റോക്ക് തിയറം പ്രകാരം ചുരുൾ ഒരു ലൈൻ ഇന്റഗ്രൽ ആയി മാറുന്നു അതിനാൽ എനിക്ക് ഒരു തുറന്ന പ്രതലം ആവശ്യമാണ് ഈ സമവാക്യത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഒരു വ്യതിചലന പദമുണ്ട് കൂടാതെ വ്യതിചലനത്തിന് ബാധകമായ സിദ്ധാന്തത്തിന് ഒരു വോളിയം ഇന്റഗ്രൽ ഉണ്ടെന്ന് എനിക്കറിയാം അതിനാൽ ഇവിടെ ഒരു വോളിയം ഗുളികയെക്കുറിച്ച് ഞാൻ കരുതുന്നു മുമ്പത്തെ ഉദാഹരണം പോലെ ഒരു വയർ ഫ്രെയിമിൽ ഈ സിദ്ധാന്തം പ്രയോഗിക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം നിങ്ങൾ എവിടെയും പോകുന്നില്ലെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ ഞാൻ ഇത് ഇവിടെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിനകം സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഉപയോഗിക്കുന്ന സിദ്ധാന്തം ഇവിടെ വ്യതിചലനമാണ് അതിനാൽ ഞാൻ ഇരുവശത്തും ഒരു വോളിയം ഇന്റഗ്രൽ എടുക്കുകയാണെങ്കിൽ അതിനാൽ ഇത് എനിക്ക് വലത് അടച്ച പ്രതലത്തിൽ D വലത് ഫ്ളക്സിന്റെ ഫ്ലക്സ് നൽകും അതിനാൽ എനിക്ക് ഇവിടെ ഒരു ഉണ്ട് അത് ഇവിടെയാണ് അതിനാൽ മുമ്പത്തെ ഉദാഹരണത്തിൽ ഞങ്ങൾ ചെയ്തതിന് സമാനമായി ഞാൻ രണ്ട് വഴികളിലൂടെയും ഈ ഇന്റഗ്രൽ കണക്കാക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് മുഴുവൻ വ്യുൽപ്പന്നത്തിലൂടെയും പോകേണ്ടതില്ല അതിനാൽ നമുക്ക് അവബോധപൂർവ്വം കാണാൻ കഴിയുന്നത് അതിനെ വിലയിരുത്തുന്നതിന് എത്ര പ്രതലങ്ങളാക്കി വിഭജിക്കണം അതിനാൽ ഇത് ഉദാഹരണമായി ഇത് ഒരു പ്രതലമാണ് മുകളിലെ തൊപ്പി തുടർന്ന് താഴെയുള്ള തൊപ്പി 1 വലത് തുടർന്ന് വളഞ്ഞ പ്രതലത്തിൽ നിന്ന് കുറച്ച് സംഭാവനകൾ ഉണ്ടാകാൻ പോകുന്നു വളഞ്ഞ പ്രതലത്തിൽ നിന്നുള്ള സംഭാവന അതിന് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം ഇത് 0 ലേക്ക് പോകും കാരണം 0 ലേക്ക് പോകുന്ന ലിമിറ്റ് ഞാൻ സജ്ജീകരിക്കാൻ പോകുന്നു ഈ ഫീൽഡ് പരമാവധി ചൂഷണം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇവിടെയുള്ള ഫീൽഡുകൾ തമ്മിൽ എനിക്ക് തൊട്ടു മുകളിലും തൊട്ടു താഴെയുമായി ഒരു ബന്ധം ലഭിക്കും ഇവിടെ ഫീൽഡും വയലും തമ്മിലുള്ള ബന്ധം എനിക്ക് ആവശ്യമില്ല നിങ്ങൾക്കറിയാം ഇത് ഒരു അതിർത്തി വ്യവസ്ഥയല്ല ഈ ആളുകളെ അതിർത്തിയോട് അടുത്ത് വരെ ചുരുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇവിടെ നിലനിൽക്കുന്ന ഈ ക്യാപ്സിൽ നിന്ന് എന്ത് സംഭാവന നൽകിയാലും അത് നിലനിൽക്കും ഇപ്പോൾ ഇവിടെ തൊപ്പിയുടെ ഉപരിതല സാധാരണമായത് ഈ അവകാശം പോലെയാണ് അതാണ് ഉള്ളടക്കം ബാഹ്യ പ്രവാഹത്തിന് സംഭാവന ചെയ്യും ഉപരിതലത്തിന് സാധാരണമായത് ഫ്ലക്സ് ആണ് അതിനാൽ ഞാൻ ഈ ഡെൽറ്റ വൈയെ 0 ആയി ചുരുക്കുമ്പോൾ ഈ ക്യാപ്സിലേക്കുള്ള നോർമലുകൾ നോർമൽ മുതൽ ഉപരിതലത്തിൽ നിന്ന് തന്നെ ഇന്റർഫേസിലേക്ക് വലത്തേയ്ക്ക് ആയിരിക്കും ഈ സാഹചര്യത്തിൽ ഇത് പ്ലസ് n ആയിരിക്കും ഈ സാഹചര്യത്തിൽ ഇത് മൈനസ് n ഹാറ്റ് ആയിരിക്കും അതിനാൽ ഞാൻ ഇവിടെ 3 വോള്യങ്ങളിൽ ഈ അക്കൌണ്ടിംഗ് നടത്തുമ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇത് ഇവിടെ എഴുതുന്നു ഘടകം കൊണ്ട് ഗുണിച്ചതും ഘടകവും പ്ലസ് 1 പദവും അതായത് വളഞ്ഞ ഉപരിതല വിസ്തീർണ്ണവും ഇതാണ് പദം 0 വലത്തേക്ക് പോകും അപ്പോൾ ബാക്കിയുള്ള തന്ത്രപ്രധാനമായ ഭാഗം ഇവിടെ വലതുവശത്തേക്ക് നോക്കുക എന്നതാണ് അതിനാൽ വലതുഭാഗം ശരിയാകും അതിനാൽ ഈ വോളിയത്തിൽ എത്ര ചാർജ് ഉണ്ട് dV യിൽ സംയോജിപ്പിച്ചിരിക്കുന്നു ഈ dV ആയിരിക്കും ശരിയായതും എഴുതാൻ കഴിയുന്നത് അതാണ് ഈ സിലിണ്ടർ ബോക്സിന്റെ വലത് വോളിയം ഇത് 0 ആയിരിക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും ഇവിടെ അവിഭാജ്യമൊന്നുമില്ല ഞങ്ങൾ അത് ഒഴിവാക്കി അതെ അതിനാൽ ഇത് 0 അല്ലെങ്കിൽ നോൺസീറോ ആയിരിക്കുമോ ഏത് അവസ്ഥയാണ് 0 അല്ലെങ്കിൽ പൂജ്യമല്ലാത്തത് കൃത്യമായി അതിനാൽ നിലവിലെ ചർച്ചയുടെ കാര്യത്തിലെന്നപോലെ എനിക്ക് ഒരു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ വോളിയം വഴി വിതരണം ചെയ്യുന്ന ഒരു ചാർജ് അപ്പോൾ സംഭവിക്കുന്നത് 0 ആയി ചുരുങ്ങുന്ന ഒരു വോളിയത്തിൽ വസിക്കുന്ന പരിമിത ചാർജ് ആണ് അതിനാൽ അതിന്റെ സംഭാവന നിസ്സാരമായിരിക്കും നേരെമറിച്ച് എനിക്ക് ഒരു ശുദ്ധമായ ഉപരിതല ചാർജ് ഉണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് മെറ്റാലിക് കണ്ടക്ടർ എടുക്കുന്ന പെർഫെക്റ്റ് കണ്ടക്ടർമാർക്ക് അത് ചാർജ്ജ് ഇടുന്നത് പോലെ വീണ്ടും സംഭവിക്കാം ഒരു ചാർജ് ഉപരിതല വലതുവശത്ത് എവിടെയാണ് ജീവിക്കുന്നത് അതിനാൽ ഈ പദം അതിജീവിക്കാനുള്ള ഒരേയൊരു മാർഗ്ഗം ചാർജ് ഒരു ശുദ്ധമായ ഉപരിതല ചാർജ് ആണെങ്കിൽ മാത്രമാണ് അതിനാൽ ഇതൊരു ശുദ്ധമായ ഉപരിതല ചാർജ് ആണ് കൂടാതെ ഇത് സാധാരണ ഘടകത്തെ പിടിച്ചെടുക്കുന്നു കൂടാതെ ഡോട്ട് ഉൽപ്പന്നത്തെ അതിജീവിക്കുന്ന ഒരേയൊരു ഭാഗമാണിത് രണ്ടാമത്തെ വ്യതിചലന ബന്ധത്തിലും എനിക്ക് അതേ യുക്തി ആവർത്തിക്കാം എനിക്ക് ലഭിക്കും അതിനാൽ ഇതും ഒരു ശുദ്ധ കാന്തിക ചാർജ് ആണ് അത് കൊള്ളാം അതിനാൽ ഈ സാങ്കേതിക വിദ്യകൾ മനസ്സിൽ സൂക്ഷിക്കുക പ്രശ്നത്തെ ആശ്രയിച്ച് നിങ്ങൾ അവ പ്രയോഗിക്കേണ്ടതുണ്ട് കൂടാതെ ഒരു ഉപരിതല ഇന്റഗ്രൽ ഒരു ലൈൻ ഇന്റഗ്രൽ അല്ലെങ്കിൽ ഒരു പ്രതലത്തിലേക്ക് ഒരു വോളിയം ഇന്റഗ്രൽ ലളിതമാക്കാൻ ഞങ്ങൾ വെക്റ്റർ കാൽക്കുലസിന്റെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്റഗ്രൽ അതാണ് ഇവിടെ അടിസ്ഥാന ആശയം ശരി അതിനാൽ ഒരു വയലിലെ ശക്തി എന്താണെന്ന് നോക്കാം അതിനാൽ ഇത് വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമായിരിക്കണം തൽക്ഷണ പോയിന്റിംഗ് വെക്റ്റർ എന്ന് വിളിക്കപ്പെടുന്ന തൽക്ഷണ പോയിന്റിംഗ് വെക്റ്ററിന്റെ നിർവചനം യഥാർത്ഥ മൂല്യമുള്ള ഭൌതിക അളവുകൾ നോക്കുമ്പോൾ വളരെ ലളിതമാണ് അതിനാൽ അതിന്റെ കാര്യത്തിൽ ഇത് കേവലം ശരിയാണ് അത് അതിനേക്കാൾ ലളിതമല്ല ഞാൻ എന്റെ ഫേസറുകൾ phasor0 ശരിയായി അവതരിപ്പിക്കുമ്പോൾ ഈ പദപ്രയോഗം കുറച്ചുകൂടി സങ്കീർണ്ണമാകുന്നു അതിനാൽ ഞാൻ ഇപ്പോൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു ഈ Poynting വെക്റ്റർ ഒരു ഫേസർ നൊട്ടേഷനിൽ പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഞാൻ എന്റെ എല്ലാ കണക്കുകൂട്ടലുകളും ഫേസറിൽ ചെയ്യാൻ പോകുന്നു കാരണം ഫേസറുകളുടെ വലത് അടിസ്ഥാനത്തിൽ എനിക്ക് ശക്തിക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കണം അതിനാൽ ഞങ്ങൾ ഇത് ഇതിനകം ചെയ്തുകഴിഞ്ഞു യഥാർത്ഥ മൂല്യമുള്ള അളവ് ഫേസർ വലത്തിന്റെ യഥാർത്ഥ ഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കുന്നു അതിനാൽ ഞാൻ നിങ്ങളോട് ഇത് ലളിതമായി ചോദിച്ചാൽ ഒരു സങ്കീർണ്ണ സംഖ്യയുടെ യഥാർത്ഥ ഭാഗം എങ്ങനെ എഴുതും കോസ് ഒരു വഴിയാണ് മറ്റൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് ഒരു സങ്കീർണ്ണ സംഖ്യ z നൽകുകയും z ന്റെ യഥാർത്ഥ ഭാഗം എനിക്ക് തരാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യും അതിനാൽ എനിക്ക് ഇത് പകുതിയായി എഴുതാം അപ്പൊ ശരി അതിനാൽ അത് വൈദ്യുത മണ്ഡലം പോകുന്നിടത്തോളം അതുപോലെ തന്നെ എനിക്ക് H ന് വേണ്ടിയും ചെയ്യാൻ കഴിയും അത് ശരി എന്ന് എഴുതാം അതിനാൽ ഞാൻ അടുത്തതായി എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഈ പദപ്രയോഗവും ഈ പദപ്രയോഗവും എടുത്ത് വെക്ടറിനെ പോയിന്റ് ചെയ്യുന്നതിനുള്ള എക്സ്പ്രഷനിൽ ഇടാൻ പോകുന്നു നമുക്ക് എന്താണ് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനാൽ ഈ രണ്ട് അളവുകൾക്കിടയിലുള്ള ക്രോസ് ഉൽപ്പന്നം ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾ എത്ര നിബന്ധനകൾ പാലിക്കും ഉദാഹരണത്തിന് ഈ വ്യക്തി ഈ വ്യക്തിയുമായി സംയോജിപ്പിക്കുമ്പോൾ എനിക്ക് എന്ത് ലഭിക്കും ഞാൻ അകത്തു കയറും ഇവൻ ഇവനുമായി ചേരുമ്പോൾ എനിക്ക് എന്ത് ലഭിക്കും വിദ്യാർത്ഥി മൈനസ് ഇയാളും ഇയാളും ചേരുമ്പോൾ എനിക്ക് ലഭിക്കാത്തത് എനിക്ക് ലഭിക്കും വിദ്യാർത്ഥി ഇല്ല DC യും നിങ്ങൾക്ക് ലഭിക്കുന്നതും 0 സമാനമായി ഈ വ്യക്തി ഈ വ്യക്തിയുമായി സംയോജിപ്പിക്കുമ്പോൾ എനിക്ക് എന്ത് ലഭിക്കും ഫ്രീക്വൻസി നിബന്ധനകൾ ഫേസർ പദങ്ങൾ 0 ശരിയാണ് അതിനാൽ ഈ പദപ്രയോഗങ്ങളെല്ലാം തുറക്കാതെ തന്നെ എനിക്ക് ലഭിക്കുന്ന ആവൃത്തി പദങ്ങൾ ഇവയാണെന്ന് എനിക്കറിയാം എനിക്ക് ഒരു 0 ലഭിക്കും എനിക്ക് ഒരു അവകാശം ലഭിക്കുന്നത് എനിക്ക് സാധ്യമല്ല നിങ്ങൾക്ക് അത് അവബോധപൂർവ്വം ഉടനടി കാണാൻ കഴിയും അതിനാൽ നിങ്ങൾ ഇത് കൂടുതൽ ലളിതമാക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന എക്സ്പ്രഷൻ ഫസ്റ്റ് ടേം എന്ന് എഴുതാം ഇതാണ് 0 ലും നിങ്ങൾക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ടേം ശരിയും അതിനാൽ എല്ലാ അതിരുകളും ബ്രാക്കറ്റുകളാണ് ഇതാണ് എനിക്ക് ശരിയാകുന്നത് അതിനാൽ ശക്തിക്ക് 2 ഘടകങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു ഒരാൾ DC യിലും ഒരാൾ അപ്പോൾ ആവൃത്തിയുടെ ഇരട്ടി ആന്ദോളനം ചെയ്യുന്ന ഫേസറുകളുടെ ശരാശരി എടുക്കുകയാണെങ്കിൽ ശരാശരി എത്രയാണ് 0 ശരി നിങ്ങൾ 1 കാലയളവിൽ സംയോജിപ്പിച്ചാൽ നമ്മൾ 2 ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയരായിരിക്കുന്ന രീതി ശരാശരി 0 ആയിരിക്കും അതുകൊണ്ടാണ് ശരാശരി പവർ DC ടേം ശരിയായി നിലനിൽക്കുന്നത് അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ സാധാരണയായി ഞങ്ങൾ ശരാശരി പവർ ഓകെയിൽ താൽപ്പര്യമുള്ളവരാണ് അതിനാൽ ശരാശരി പവർ ഇപ്പോൾ ഫേസറുകളുടെ അടിസ്ഥാനത്തിൽ നൽകിയിരിക്കുന്നു അതിനാൽ ഇതാണ് അതിന്റെ പകുതി ശരിയായി എടുക്കുക അതിനാൽ ഈ E ക്രോസ് H എന്ന പവർ ഇവിടെ E ക്രോസ് H നക്ഷത്രം യഥാർത്ഥമായിരിക്കുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് സാങ്കൽപ്പികമാണ് അതിനാൽ യഥാർത്ഥ ഭാഗം എനിക്ക് ശക്തി നൽകാൻ പോകുന്നു പിന്നെ സാങ്കൽപ്പിക ഭാഗത്തിന്റെ കാര്യമോ സർക്യൂട്ട് പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകളെ നമ്മൾ എന്താണ് വിളിക്കുന്നത് വിദ്യാർത്ഥി റിയാക്ടീവ് റിയാക്ടീവ് പവർ അതിനാൽ ആന്റിനയിൽ നിന്നുള്ള വികിരണം നോക്കുമ്പോൾ യഥാർത്ഥ ശക്തിയുടെയും പ്രതിപ്രവർത്തന ശക്തിയുടെയും ഈ ആശയം വളരെ രസകരമായിരിക്കും ഒരു ആന്റിനയുടെ സമീപ ഫീൽഡിൽ ഊർജ്ജത്തിന്റെ ഭൂരിഭാഗവും റിയാക്ടീവ് ആണ് ഞാൻ ദൂരെയുള്ള ഫീൽഡിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ കൂടുതൽ ശരിയാകുന്നത് ഞങ്ങൾ കണ്ടെത്തും അതിനാൽ ഇത് സൈദ്ധാന്തിക വിനോദത്തിന് മാത്രമല്ല ഇത് യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ സംഭവിക്കുന്നത് ശരിയാണ്